നമസ്കാരം എല്ലാവർക്കും ക്ലൌഡ് കമ്പ്യൂട്ടിംഗിന്റെ ഉണ്ടാവാറുണ്ട് ഇത് ഒരു കുഴപ്പിക്കുന്ന പ്രശ്നമാണ് കാരണം ചില സ്ഥാപനമോ വ്യക്തിയോ അവരുടെ സ്വന്തം സ്വകാര്യം അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കമ്പ്യൂട്ടിംഗ് പാരഡിമ്മിനെ ഉപയോഗിക്കുന്നു അവർ ഇതിൽ നിന്നും സ്വന്തം സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന വിശ്വാസ്യത കാര്യക്ഷമത സുരക്ഷ എന്നിവ പ്രതീക്ഷിക്കുന്നും ഉണ്ടാകും ഇനി ഇത് നമുക്ക് ചെയ്യുവാൻ വേണ്ടി ചില എഗ്രിമെന്റുകൾ ആണ് തരുന്നത് എന്നും നമ്മൾ ഈ പാഠഭാഗത്ത് നോക്കുവാൻ പോകുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ എസ് എൽ എ അതായത് സർവീസ് ലെവൽ എഗ്രീമെന്റ് നോക്കുകയാണ് അത് ഒരു സർവീസ് പ്രോവയിടറും രീതിയാണ് ഇത് അതുമാത്രമല്ല ചെയ്യുന്നത് എനിക്ക് കുറച്ച് പരാമീറ്ററുകൾ വച്ച് മറ്റു പ്രൊവയിടറുകളുമായി താരതമ്യം ചെയ്തു നോക്കുവാനും സാധിക്കും അതു വച്ച് ആരുടെ കൈയിൽ നിന്നും ആണ് ഞാൻ സർവീസ് വാങ്ങിക്കുന്നത് എന്ന് തീരുമാനിക്കുവാൻ എന്നെ സഹായിക്കും ഇവിടെ അപ്പോൾ ഉദ്ദേശം എന്തെന്നാൽ ഒരു പ്രൊവൈഡർ കൊടുക്കുന്ന സർവീസിനെ വിതരണം ചെയ്യുന്നതിനുള്ള ഉറപ്പിൻറെ നിർവാഹനത്തെക്കുറിച്ചും ലഭ്യതയെക്കുറിച്ചുമുള്ള ഒരു ഫോർമൽ ആയിട്ടുള്ള വിശദീകരണം എനിക്ക് ഒരു ഗ്യാരണ്ടി ആണ് വേണ്ടതെങ്കിൽ എനിക്ക് 95 ഉള്ള ഡെലിവറിയുടെ ഗ്യാരണ്ടി വേണം കിട്ടേണ്ടത് അല്ലേ അങ്ങനെ വരുമ്പോൾ എനിക്ക് 95 നേക്കാൾ കൂടുതൽ തരുന്ന പ്രൊവൈഡറിനെ ആയിരിക്കും ആവശ്യം വരിക അപ്പോൾ SLA എന്നത് വ്യാപ്തിയുള്ള ഒരു പദമാണ് അതിന് പല ഒബ്ജക്ടീവുകളും ഉപയോഗിച്ച് കണക്കുകൂട്ടുന്നത് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് അവിടെയുള്ള ഒബ്ജക്ടീവുകൾ ഇനി മറ്റൊരു രസകരമായ കാര്യം ഏന്താണെന്നാൽ ഈ ഒബ്ജക്ററിവുകൾ കൺസ്യൂമറിൽ നിന്നും കൺസ്യൂമറിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും ഉദാഹരണത്തിന് നമ്മളെ പൊലെയുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ആണെങ്കിൽ അവരുടെ ഒബ്ജക്ടീവ് തരങ്ങൾ നല്ല വ്യത്യാസമായിരിക്കും അല്ലെങ്കിൽ അത്ര വലിയ വ്യത്യാസം ഉണ്ടാകില്ലായിരിക്കും അതായത് അവരുടെ ശ്രദ്ധാ കേന്ദ്രം ചിലപ്പോൾ വ്യത്യാസമായിരിക്കാം ഈ ഒബ്ജക്ടീവുകളിൽ പിന്നെ ഫിനാഷ്യൽ ഓർഗനൈസേഷൻ 95 ആണ് ചിലപ്പോൾ എനിക്ക് ഡേറ്റയുടെ സ്ഥിരത കുറച്ചു കൂടുതൽ വേണ്ടി വരും ചില സ്ഥാപനങ്ങൾ അവരുടെ അപ് ടൈം 99 നേക്കാൾ കൂടുതൽ ആണെന്നും അതിനേക്കാൾ കുറവ് അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല എന്നും പറയും എന്തായാലും ഞാൻ ഈ ഡേറ്റക്ക് കണക്കു കൂട്ടുവാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ സാധനങ്ങൾ ഇവിടെ പ്രാതിനിധ്യം വഹിക്കുന്നു അപ്പോൾ SLA യുടെ വിവിധ തരത്തിലുള്ള ഏതൊക്കെ കണ്ടന്റുകൾ ആയിട്ടുള്ള പലതരത്തിലുള്ള സർവീസുകളാണ് അത് IAAS ടൈപ്പാകാം അല്ലെങ്കിൽ PAAS ടൈപ്പാകാം അല്ലെങ്കിൽ SAAS ടൈപ്പാകാം അല്ലെങ്കിൽ ഡേറ്റ സർവ്വീസിന് വേണ്ടിയിട്ടുള്ളവ ആകാം അങ്ങനെ അങ്ങനെ അപ്പോൾ ഈ SLA കൾ ഇവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ SLA എന്നത് ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ ആണ് അത് സർവീസ് കൊടുക്കുന്നത് ആണ് അപ്പോൾ ഇത് കൊടുക്കുന്ന ഓരോ സർവ്വീസിന്റേയും പൂർണമായിട്ടുള്ള വിവരണം എടുത്തു പറയണം പിന്നെ പ്രൊവൈഡറും കൺസ്യൂമറും SLA യെ ബഹുമാനിക്കുവാനുള്ള ഉത്തരവാദിത്വത്തെ കുറിച്ചും കൊടുക്കണം പ്രൊവൈഡർ പറഞ്ഞിട്ടുള്ള അത്രയും സർവ്വീസുകൾ വേണം അപ്പോൾ ഒരു മെട്രിക് വെച്ചിട്ട് എത്രയാണോ വാഗ്ദാനം ചെയ്തത് അത്രയും ഇവർ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതിനെ അളക്കാൻ ഉപയോഗിക്കാം ഒരു ഓഡിറ്റിംഗ് മെക്കാനിസം തിരിച്ചു തരേണ്ടി വരും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പാലിക്കാതെവരാൻ സാധ്യതയുള്ളത് ഇനി നിങ്ങൾ ഒരു സ്ഥാപനത്തിൻറെ ദൈനം ദിന കാര്യങ്ങൾ നോക്കൂ അവിടെ എം ഓ യു വരും അവയിൽ എന്തെങ്കിലും ലംഘനം ഉണ്ടായാൽ എന്ത് പരിഹാരം ആണ് വേണ്ടത് എന്നുള്ളത് വ്യക്തമായി കൊടുക്കും എന്തെങ്കിലും സർവീസിന് ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാതെ വരികയാണെങ്കിൽ എത്ര പിഴ കൊടുക്കണം എന്ന് ഉണ്ടാകും ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ ഒരു സർവീസ് കൊടുക്കാം എന്ന് ഉറപ്പു നൽകി പക്ഷേ എനിക്ക് അത് കൊടുക്കുവാൻ സാധിച്ചില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ പിഴ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഇൻസെൻററീവ് ഇതിനു പരിഹാരമായി കൊടുക്കേണ്ടിവരും അത് ഇവിടെ വ്യക്തമായി കൊടുക്കും അല്ലേ ഇനി എസ് എൽ എ സമയ അനുസൃതമായി എങ്ങനെ മാറുന്നു അത് ഒരു പ്രത്യേക ദിവസം തന്നെ കാര്യങ്ങളിൽ സമയം അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം അല്ലെങ്കിൽ പല ദിവസങ്ങളിൽ ആയി മാറാം അങ്ങനെ അങ്ങനെ അപ്പോൾ എസ് എൽ എ സമയം അനുസരിച്ച് മാറുന്നുണ്ടോ എസ് എൽ എ ഒരു താൽകാലികമായി മാറുന്ന ഒന്നാണോ എന്ന് നോക്കണം അല്ലേ ഇപ്പോൾ വെബ് സർവീസ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ഇവയെ കുറിച്ച് വേണമെങ്കിൽ ഒരു ചെറിയ പ്രഭാക്ഷണം ഞാൻ പിന്നീട് എടുക്കുന്നതാണ് വെബ് സർവീസിനെ കുറിച്ചും സർവീസ് ഓറിയന്റഡ് ആർക്കിടെക്ച്ചറിനെ കുറിച്ചും നിങ്ങളിൽ പലരും ഇതുമായി പൊരുത്തപ്പെട്ടിട്ടുണ്ടാവില്ല പക്ഷേ ഞാൻ വിചാരിക്കുന്നു ഒരുപാടു പേർക്ക് ഇതിനെ കുറിച്ച് അറിയാമെന്ന് പിന്നെ കൺസ്യൂമറും പ്രൊവയ്ടറും തമ്മിൽ ബന്ധപെടുവാൻ വേണ്ടിയുള്ള ആശയം ഈ വെബ് സർവീസിൽ ഉണ്ട് അപ്പോൾ ഇതിൽ ഒരു എഗ്രിമെൻറ് കൂടി വേണം അല്ലെ അല്ലെങ്കിൽ നമുക്ക് പറയാം വെബ് സർവ്വീസ് SLA വെബ് സർവ്വീസ് SLA യിൽ ഒരുപാട് കംപോണന്റുകൾ ഉണ്ട് അതിലൊന്ന് വെബ് സർവ്വീസ് എഗ്രിമെൻറ് ആണ് XML അടിസ്ഥാനമാക്കിയുള്ള ലാംഗ്വേജും സ്വഭാവം പ്രത്യേകം എടുത്തു പറയണം നമ്മൾ ആ ഫോർമാറ്റിൽ എന്താണ് സമ്മതിക്കുന്നത് ഇത് നമുക്ക് പറ്റുന്ന പ്രൊവൈഡറുകളെ കണ്ടെത്തി തരുന്നു അപ്പോൾ അവിടെ ഒന്നിൽ കൂടുതൽ പ്രൊവൈഡറുകൾ ഉണ്ടാകാം അവരിൽ നിന്ന് നമുക്ക് പറ്റുന്ന പ്രൊവൈഡറിനെ കണ്ടെത്താൻ സാധിക്കും ഇങ്ങനെ സമ്പർക്കം നടക്കുമ്പോൾ അവർ പ്രതികരണം ആവശ്യപ്പെടും അല്ലെ എസ് എൽ എയിൽ എന്തെങ്കിലും ലംഘനം ഉണ്ടായാൽ അതിനെ ഉടൻ തന്നെ കൈകാര്യം ചെയ്യുകയും ഉറപ്പുവരുത്തുകയും ചെയ്യണം അതിനുള്ള നടപടികൾ സ്വീകരിക്കണം പിന്നെ മറ്റൊരു ആശയം ആയ ഡബ്ളിയു എസ് എൽ എ കാണിക്കാൻ ഉപയോഗിക്കുന്നു ക്യൂ ഓ എസ്സ് പരാമീറ്ററിനെ നന്നായി പ്രവർത്തിക്കുണ്ടോ എന്നും അതൊ അങ്ങനെ അല്ല എന്നുള്ളതും പറഞ്ഞു തരുന്നു അല്ലെങ്കിൽ എന്തൊക്കെ തെറ്റുകൾ വരാം എന്നുള്ളവ പറഞ്ഞു തരുന്നു ഒരുപാട് വ്യത്യസ്തങ്ങളായ സെമാറ്റിക്സിനെ കുറിച്ച് വിവരിക്കേണ്ടത് ഉണ്ട് ഇപ്പോൾ ഈ ഡബ്ളിയു എസ് എൽ എ ക്ക് ഇവയുമായി ഒരു ബന്ധം ഉണ്ട് എന്നാണ് അല്ലേ നമ്മൾ ഇപ്പോൾ ചെറിയ കാര്യങ്ങളിലൂടെ ഉള്ള വ്യത്യാസങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവയെ മൂന്ന് ആയിട്ട് വിഭജിക്കാം ഒന്ന് ക്യു ഓ എസ് പരാമീറ്റർ ആണ് അപ്പോൾ ഈ മൂന്നെണ്ണം ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത് ഇനി ഒരു ട്രഡീഷണൽ വെബ് സർവ്വീസിന്റെ സർവ്വീസിന്റെ വില അങ്ങനെ തുടങ്ങിയവയുമായിട്ടുള്ള ബന്ധം നോക്കും ട്രഡീഷണൽ കാര്യങ്ങളിൽ റസ്പോൺസ് ടൈം വളരെ വലിയ പങ്കുവഹിക്കുന്നു അതുപോലെ തന്നെയാണ് SLA ലംഘനത്തിന്റെ തോത് റിലയബിലിറ്റി അവൈലബിലിറ്റി സർവ്വീസിന്റെ വില എന്നുള്ളവയിലും വഹിക്കുന്നത് അപ്പോൾ ഈ ലംഘനത്തിന്റെ തോത് നമ്മൾ ഇങ്ങനെ അളക്കുന്നു ക്ലൌഡിന്റെ കാര്യത്തിൽ ആണെങ്കിൽ ക്യൂ ഒ എസ്സ് ഈ നിരീക്ഷണം നമുക്ക് ആവശ്യമാണ് റിസോഴ്സ് അലോക്കേഷൻ ഇല്ലാതെ അപ്പോൾ ഇത് വിതരണം ചെയ്തിരിക്കുകയാണ് ഓരോന്നും ആരുടെ കൈയ്യിലാണുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി വേറെ മെക്കാനിസം ഉണ്ട് നമ്മൾ ഇനി പലതരത്തിലുള്ള SLA നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം അതിലൊന്ന് ഓഫ് ദ ഷെൽഫ് കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്നു അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമുക്ക് ഇതിനെ ഉപയോഗിക്കാം പ്രൊവിഡർ ആണ് എസ്സ് എൽ എ ടെംപ്ലേറ്റ് ഉം അതിന്റെ കൂടെ വെറെ കുറെ ടേംസ്സും കണ്ടിഷൻസും നിങ്ങൾ ഇവയെ അംഗീകരിച്ചാൽ മാത്രമേ ഇതു കിട്ടുകയുള്ളു അതെ സമയം നെഗോഷ്യബിൾ ആകും

അങ്ങനെ വരുമ്പോൾ നമുക്ക് ക്ലൌഡിന്റെ ഓഫ് ദ ഷെൽഫിലെ സ്റ്റാന്ററ്റേഡ് ആകാം അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്നതോ അല്ലെങ്കിൽ നെഗോഷ്യബിള് ആയിട്ടുള്ളതോ ഉപയോഗിക്കുവാൻ സാധിക്കും നമുക്ക് ഇപ്പൊൾ ചെറിയ ഒരു ആവശ്യമാണ് ഉള്ളതെങ്കിൽ ഒരു സമാൾ സ്കെയിൽ ഓപ്പറേഷൻ ഇവിടെ ഉപയോഗിക്കണം അങ്ങനെ വരുകയാണെങ്കിൽ നമ്മൾ ഇവിടെ എസ്സ് എൽ എ നെഗോഷ്യബിളിലേക്ക് പോകാം നിങ്ങൾക്ക് ഇപ്പോൾ രണ്ടു പേർക്ക് വേണ്ടിയിട്ടുള്ള ഹോട്ടലിൽ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടിൽ ബുക്കു ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താണോ കിട്ടുന്നത് അത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അതേ സമയം ഒരു വലിയ ബുക്കിങ് നടത്തണമെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് മൊത്തം ഹോട്ടലൊ മൊത്തം ട്രാൻസ്പോർട്ട് ബസ്സോ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വില പേശൽ നടത്താൻ സാധിക്കും കറച്ച് നല്ല ധാരണ ഉണ്ടാക്കുവാൻ വേണ്ടി നമ്മൾ ഇതുവരെ SLA യെ കുറിച്ച് നോക്കി അതായത് സർവീസ് ലെവൽ എഗ്രിമെൻറ് SLO SLA യ്ക്ക് സംഭാവന ചെയ്യുകയാണ് അതായത് സർവീസ് ലെവൽ ഒബ്ജക്ടീവ്സ് വരുന്ന ചോദ്യങ്ങളുടെ പ്രതികരണ സമയം മൂന്നു തൊട്ട് അഞ്ച് സെക്കൻഡ് വരെ വേണം അപ്പോൾ അതാണ് പ്രതികരണ സമയം ഞാൻ ഒരു സർവറിന്റെ പീക്ക് ലോഡ് സമയത്ത് ത്രൂ പുട്ട് 0 875 ആഗ്രഹിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നോക്കുന്നത് ഇതൊക്കെയാണ് പലതരത്തിലുള്ള SLO s അപ്പോൾ സർവീസ് ലെവൽ മാനേജ്മെൻറ് എന്റെ കയ്യിൽ എഗ്രിമെന്റുമുണ്ട് SLO യും ഉണ്ട് അതുവെച്ച് ഈ മൊത്തം സാഹചര്യവും എനിക്ക് കൈകാര്യം ചെയ്യണം SLO യുടെ അടിസ്ഥാനത്തിൽ ഒരു സർവ്വീസിന്റെ കാര്യക്ഷമത നമ്മൾ നിരീക്ഷിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു SLO പല മൂല്യങ്ങളെയും അറിയിക്കുകയും ചെയ്യുന്നു ഒരു പ്രൊവൈഡറിന്റെ കാഴ്ചപ്പാടിലുള്ള തീരുമാനങ്ങൾ ബിസിനസ് ഒബ്ജക്ടീവും ടെക്നിക്കൽ റിയാലിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബിസിനസ് ഒബ്ജക്റ്റീവ് എത്രമാത്രം കാര്യങ്ങളാണ് പ്രൊവൈഡറിന്റെ കയ്യിലുള്ളത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കൺസ്യൂമറിന്റെ കാഴ്ചപ്പാടിലുള്ള തീരുമാനങ്ങൾ ക്ലൌഡ് സർവീസിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇതു വച്ച് അത് നമ്മുടെ സ്ഥാപനത്തിനു പറ്റുന്നതാണോ നമ്മുടെ സ്വന്തം സ്വപ്നങ്ങൾ അനുസരിച്ച് ഉള്ളതാണോ എന്നുള്ളതെല്ലാം നമുക്ക് അളക്കുവാൻ സാധിക്കും അപ്പോൾ ഈ SLA യ്ക്ക് ഒരുപാട് പരിഗണനകൾ ഉണ്ട് അതിലെ ഒന്ന് വേണമെങ്കിൽ ബിസിനസ് ലെവൽ ഒബ്ജക്റ്റീവ് ആയി എടുക്കാം പിന്നെ കൺസ്യൂമറിനും പ്രൊവൈഡറിനുമുള്ള ഉത്തരവാദിത്വം വളരെ പ്രധാനമാണ് അതായത് അവർ തമ്മിലുള്ള ഒരു സമതുലനാവസ്ഥ സൃഷ്ടിക്കണം ആ ഒരു സമതുലനാവസ്ഥ ഏതുതരത്തിലുള്ള സർവ്വീസ് ആണ് എന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ചില സർവീസുകളിൽ പ്രൊവയിഡറിന്റെ ഉത്തരവാദിത്തം കൂടുതൽ ആയിരിക്കും ചിലയിടങ്ങളിൽ കൺസ്യൂമറിന്റെ ഉത്തരവാദിത്തം കൂടുതൽ ആയിരിക്കും ഉദാഹരണത്തിന് ഞാൻ കുറച്ച് ഡേറ്റാ അവുട്ട്പുട്ട് മാത്രമേ ഒരു സെക്കന്റിൽ എടുക്കുവാൻ സാധിക്കുകയുള്ളു ഞാൻ ഇനി x ഡാഷ് ഡേറ്റാ കൊടുക്കുകയാണ് x ഡാഷ് എന്നത് x നെക്കാൾ കൂടുതൽ ആണ് അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു പ്രശ്നം വരും കൂടുതൽ ഡേറ്റാവരുന്നതു കാരണം പ്രശ്നം ഉണ്ടാകും അത് എസ് എൽ എ യിൽ ലംഘനം വരുത്തുന്നത് ആയിരിക്കും അപ്പോൾ ഇവർ രണ്ടു പേർക്കും ഉത്തരവാദിത്തം ഉണ്ട് അത് അവർ പരിശോധിച്ച് നോക്കുകയും വേണം ഓഡിറ്റു ചെയ്യുകയും ആകാം ഇനി അടുത്തത് ബിസ്സിനസ്സിന്റെ തുടർച്ചയും ദുരന്ത നിവാരണവും അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കൺസ്യൂമർ ക്ലൌഡ് പ്രൊവൈഡറിന്റെ കൈയിൽ നിന്നും ഉറപ്പുവരുത്തേണ്ടത് അവർക്ക് ദുരന്തം വന്നാൽ സുരക്ഷ ലഭിക്കുമോ എന്നുള്ളതാണ് അത് പ്രകൃതി ദുരന്തമാകാം മനുഷ്യ നിർമിതമാകാം അല്ലെങ്കിൽ സിസ്റ്റത്തിലുള്ള തകരാറു മൂലവും ആകാം അടുത്തത് സിസ്റ്റം റിടെൻന്റ്സി ഒരുപാട് ക്ലൌഡ് പ്രൊവയിഡർമാർ വലിയ ഡേറ്റകൾ അതായത് വലിയ സർവീസ്സുകൾ കൊടുക്കുന്നത് റിടൻറ്റന്റ്സി സിസ്റ്റം ഉപയോഗിച്ചാണ് അതിലൂടെ നിങ്ങൾക്ക് ഉറപ്പ് ലഭിക്കും അപ്പോൾ ഒരുപാടു കാര്യങ്ങൾ കൂടി ബന്ധപ്പെട്ടിരിക്കുകയാണ് മറ്റൊരു പ്രശ്നം ക്ലൌഡിന്റെ അന്തർഘടന ശരിയാക്കുന്ന സമയത്ത് ക്ലൌഡ് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ചിലപ്പാൾ ബാധിച്ചേക്കാം അപ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണ് ഇനി ക്ലൌഡ് പ്രൊവയ്ഡർ നമ്മുടെ അടുത്ത് ഡേറ്റാ ലോക്കേഷൻ എല്ലാം പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പു വരുത്താൻ പ്രൊവിഡറിനെ ഓഡിറ്റ് ചെയ്യാം ഉദാഹരണത്തിന് ഐ ഐ റ്റി ഖരക്പൂരിന് എനിക്ക് അത് ചെയ്യാം ഞാൻ കൊടുക്കുന്ന ഡേറ്റാ ഇന്ത്യക്കകത്ത് തന്നെ നിൽക്കണം എന്ന് കൊടുക്കാം അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഞാൻ നോക്കുന്നില്ല പക്ഷേ മറ്റു രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ സ്ഥലങ്ങളിലേക്കോ ആ ഡേറ്റ പോകുവാൻ പാടില്ല എന്ന് ഉറപ്പുവരുത്തണം അടുത്തത് സീഷർ ഓഫ് ഡേറ്റ ഒരു പ്രത്യേക കസ്റ്റമർ ഉപയോഗിക്കുന്നതിന്റെ മുകളിൽ നമ്മൾ നിയമം നടപ്പിലാക്കുകയാണെങ്കിൽ അത് ഒരുപാട് പേർ ഉപയോഗിക്കുന്ന ഒരു ക്ലൌഡ് ആണെങ്കിൽ മറ്റു കൺസ്യൂമർമാരെ അത് ബാധിക്കും അതായത് ഒരാളുടെ ഡേറ്റയിൽ നമ്മൾ നിയമം നടപ്പിലാക്കുമ്പോൾ അതായത് അതിനെ നമ്മൾ തടഞ്ഞുവയ്ക്കുകയാണെങ്കിൽ അത് ഒരു മൾട്ടിടെനന്റ് നകത്ത് ആണ് നിൽക്കുന്നതെങ്കിൽ അതിൽ വേറെ കൺസ്യൂമറുകളും ഉണ്ടാകും അപ്പോൾ ഇത് തടഞ്ഞുവയ്ക്കുമ്പോൾ ആ മൊത്തം സാധനങ്ങളും തടയപ്പെടും ഇനി മറ്റൊരു പ്രശ്നം എന്നത് പ്രൊവയിഡറിന്റെ തോൽവിയാണ് അടുത്തത് ജൂറിസ്ഡിക്ഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നും പറയണം കൺസ്യൂമറിന്റെ ഡേറ്റയുടെ സ്വകാര്യതയിൽ ഉണ്ടാവുന്ന ലംഘനം ഒരു വലിയ പ്രശ്നമാണ് കൺസ്യൂമന്റെ ഡേറ്റാ ഇനി മൾട്ടി ടെനന്റ് സാഹചര്യത്തിലാണ് ഉള്ളതെങ്കിൽ കൺസ്യൂമറിന്റെ ഡേറ്റ മാത്രമായി എങ്ങനെ അതിൽ നിന്നും മാറ്റിയെടുക്കും ആ ഡേറ്റയെ സൂക്ഷിക്കുകയും അല്ലെങ്കിൽ മായ്ക്കുകയും ചെയ്യണം ക്ലൌഡിന് എത്ര നാളത്തേക്കാണ് ഈ ഡേറ്റ സൂക്ഷിച്ചുവയ്ക്കാൻ കഴിയുക അല്ലെങ്കിൽ അതിന് എപ്പോഴാണ് അല്ലെങ്കിൽ എവിടെ വെച്ചാണ് ഇതു മായ്ച്ചു കളയുക ഹാർഡ്വെയറിനെ മായ്ക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യണം പ്രൊവൈഡറിന് ഇതിന്റെ മെമ്മറി പൂജ്യം ആക്കുകയോ ചെയ്യാൻ പറയുകയാണെങ്കിൽ അതിനെ കളയുകയോ വീണ്ടും ഉപയോഗിക്കുകയൊ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഈ ഹാർഡ്വെയറിനെ മായ്ക്കുകയോ കളയുകയോ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവയിൽ അത് എന്തുമാത്രം ബാധിക്കും ഇതിനെക്കുറിച്ചെല്ലാം അവിടെ ഉണ്ടായിരിക്കണം ഇതിനു വേറെയും ഒരുപാട് ആവശ്യങ്ങളുണ്ട് അതിലെ ഒന്നുവേണമെങ്കിൽ കാര്യനിർവഹണത്തിനുള്ള സമ്മതം ആയിരിക്കാം മറ്റൊന്ന് സുതാര്യത ആയിരിക്കാം അതായത് ഞാൻ കൺസ്യൂമറിന് കൊടുക്കുന്നത് സുതാര്യമായിരിക്കണം മൂന്നാമതൊരാൾക്കും സുതാര്യമായിരിക്കണം പിന്നെ ചില പ്രത്യേക നിലവാരത്തിലുള്ള സർവ്വീസുകൾക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ടോ എന്നും ഉറപ്പു വരുത്തണം അതിനുശേഷം പ്രൊവൈഡർ കൊടുക്കുന്ന സർവ്വീസിന്റെ കാര്യക്ഷമത നിരീക്ഷിക്കണം പ്രൊവൈഡർ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊവൈഡറും കൺസ്യൂമറും തമ്മിലുള്ള വാക്കേറ്റത്തിന് കാരണം ആകാതിരിക്കാനുള്ള സർട്ടിഫിക്കേഷൻ കൊടുക്കണം മൂന്നാമതൊരാൾ ആയിട്ടുള്ള ഓഡിറ്റർ ആണ് ഈ കാര്യക്ഷമത നിരീക്ഷിക്കുന്നതിനുള്ള ഒരു പരിഹാരം തരുന്നത് ഇത് പറയുവാൻ വളരെ എളുപ്പമാണ് പക്ഷേ യഥാർത്ഥത്തിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് പ്രാവയ്ഡർ മൂന്നാമതൊരാളെ അവരുടെ സിസ്റ്റത്തിൽ ജോലി ചെയ്യുവാനായി അങ്ങനെ അനുവദിക്കണമെന്നില്ല അതിനുശേഷം ഓഡിറ്റുബിലിറ്റി ഓഡിറ്റ് ചെയ്യാൻ സാധിക്കണം കാരണം ഇത് കൺസ്യൂമറിന്റെ വ്യവസായത്തെ ബാധിക്കും എസ് എൽ എ എവിടെ വച്ചാണ് ഈ ഓഡിറ്റ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമാക്കിയിരിക്കണം കാരണം ഓഡിറ്റ് ചെയ്യുന്നത് പ്രശ്നമുളളതും പിന്നെ അതുപോലെ തന്നെ പ്രൊവൈഡറിൽ ചിലവുള്ളതും ആണ് പ്രൊവയ്ഡർ ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ കഴിവതും ചിലവിനെ നിയന്ത്രിക്കുവാൻ നോക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഓഡിറ്റിങ് പതിവായി ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ചിലവേറിയ ഒരു കാര്യമാണ് നിരീക്ഷണത്തിനു വേണ്ടി മാത്രമല്ല റിസോഴ്സ്ന്റെ കാര്യത്തിലും പ്രശ്നമാണ് ഒരുപാടുസമയം പ്രവർത്തനക്ഷമമല്ലാതെ ഇരിക്കേണ്ടിവരും ഒരുപാട് റിസോഴ്സ്ന്റെ ആവശ്യം വരും അതു കാരണം പ്രൊവൈഡർ ഇത് അടിക്കടി ചെയ്യാൻ തയാറാകാറില്ല അതുകൊണ്ട് ഇതിനെ കുറിച്ച് വ്യക്തമായ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാകണം മറ്റൊരു ഘടകം എന്നത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ആണ് അത് താഴ്ന്ന തലത്തിലുള്ള ഒരു റിസോഴ്സ് മെട്രിക് ആണ് ഒരുപാട് KPI ഒരുമിച്ച് ചേരുമ്പോൾ അതൊരു ഉയർന്ന തലത്തിലുള്ള SLO ആയി മാറുന്നു ഒരുപാട് SLO കൾകൂടി ചേരുമ്പോൾ ഒരു SLA ആകുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണാം എന്റെ കയ്യിൽ ഒരു SLA ഉണ്ട് പിന്നെ SLO പിന്നെ KPI അപ്പോൾ KPl ആണ് ഏറ്റവും താഴ്ന്ന തലത്തിലുള്ള മെട്രിക് അതിനർത്ഥം ഒരുപാട് KPI ഒരുമിച്ച് ചേരുമ്പോഴാണ് നമുക്ക് ഒരു ഉയർന്ന തലത്തിലുള്ള SLO കിട്ടുന്നത് KPIപിന്നെ ഡൌൺ ടൈം എന്നിവ എല്ലാം അതിന് ഉദാഹരണങ്ങളാണ് അപ്പോൾ ഇതൊക്കെയാണ് വിവിധ തരത്തിലുള്ള കെ പി ഐ പിന്നെ പൊസിബിൾ മാപ്പിങ്ങ് കളെ നമ്മൾ കെ പി ഐ വച്ചാണ് അളക്കുന്നത് കെ പി ഐകൾ കൂടി ചേരുമ്പോൾ എസ് എൽ ഒ ആകുന്നു എസ്സ് എൽ ഒ ക്കൾ കൂടി ചേരുമ്പോൾ എസ്സ് എൽ എ ആകുന്നു അപ്പൊൾ ഇൻഡസ്ട്രി വിശദീകരിക്കുന്ന കെ പി ഐ മോണിറ്ററിങ്ങ് അതിലെ സ്വാഭിവകമായ ചോദ്യങ്ങൾ ആരാണ് പ്രൊവിഡർ തരുന്ന പെർഫോമൻസിനെ നിരീക്ഷിക്കുന്നത് എന്ന് പിന്നെ കൺസ്യൂമർ അവരുടെ ഉത്തരവാദിത്തം പാലിക്കുന്നുണ്ടോ എന്ന് ഇതിനുള്ള പരിഹാരം നിഷ്പക്ഷനായ മുന്നാമതൊരാൾ നിരീക്ഷിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യണം ഓഡിറ്റബിലിറ്റി കാരണം ഉള്ള പ്രശ്നങ്ങളും തീർക്കണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ നിരീക്ഷിക്കാനും ഓഡിറ്റ് ചെയ്യാനും മെട്രിക് ഉപയോഗിക്കുന്നു ഇതാണ് നമ്മൾ സാധാരണ ഉപയോഗിച്ചു കാണുന്ന മെട്രിക്സ് ത്രൂ പുട്ട് അപ്പോൾ പുതിയ V M കൾ തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്യും ഉദാഹരണത്തിന് ലോഡ് ബാലൻസിങ് അത് ഒരു സിസ്റ്റത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അടുത്തത് ഡൂറബലിറ്റി രീതിയിൽ ആയിരിക്കും ചെയ്യുക ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിനെ നമുക്ക് പിന്നീട് നോക്കാം വേറെ കുറെ മെട്രിക്കുകളും ടൈം ഇത് മറ്റു ചില ഘടകങ്ങൾ ആണ് നമ്മുടെ കൈയിൽ ഇപ്പോൾ ഈ പട്ടിക ഉണ്ട് ഇതിൽ നോക്കിയാൽ അറിയാം പല തലങ്ങളിലും പല ആവശ്യങ്ങൾ ആണ് ഉള്ളത് എന്ന് ഉദാഹരണത്തിന് ഐ എ എ എസ്സിന് ന് വേറെ അങ്ങനെ ചിലതിന് വളരെ ചുരുക്കം ഘടകങ്ങളെ ആവശ്യമേ ഉണ്ടാകു ഇവിടെ പെട്ടെന്ന് നോക്കുമ്പോൾ ജനകീയമായ ചില ക്ലൌഡ് പ്രൊവൈഡേഴ്സിന്റെ SLA കാണാൻ സാധിക്കും ഉദാഹരണത്തിന് ആമസോൺ അതിലെ EC2 അത് IAAS പ്രൊവൈഡർ സർവ്വീസ് പ്രൊവൈഡർ ആണ് അതിന്റെ ലഭ്യത 99 അത് ഒരു വർഷം കൊടുക്കുന്ന സർവ്വീസ് 365 ദിവസമാണ് വാർഷിക അപ്പ് ടൈം അതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ആമസോണിൽ S3 സ്റ്റോറേജ് ഇത് സർവ്വീസിനെ സൂക്ഷിക്കുക എന്ന ജോലിയാണ് ചെയ്യുന്നത് അവിടെ ലഭ്യത 99 ആണ് പിന്നെ തെറ്റിൻറെ തോത് മാസത്തിലുള്ള അപ്പ്ടൈം അങ്ങനെ അങ്ങനെ വിവരിക്കുന്നു അങ്ങനെ പരാമീറ്റർ ഇൻഡക്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഗൂഗിൾ സെയിൽസ് ഫോഴ്സ് മൈക്രോസോഫ്റ്റ് എന്നിവ IaaS പാസ് എന്നിവയുടെ ലഭ്യത 99 9 ആയി കൊടുക്കുന്നു ഈ വിശദീകരണം വെച്ച് മാസംതോറുമുള്ള കണക്ടിവിറ്റി അപ്പ് ടൈം സർവ്വീസിന്റെ നിലവാരം അതെല്ലാം അറിയാൻ പറ്റും അതുപോലെ സോഹോ എന്നത് സാസ് റാക്ക് സ്പേസ് ടെറെ മാർക്ക് കൊടുക്കുന്നുണ്ട് ചില കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത് സർവീസ് ലെവൽ എഗ്രിമെൻറ് എന്നത് ക്ലൌഡ് കമ്പ്യൂട്ടിങ്ങിൽ ഒരു വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത് എന്നുള്ളതാണ് എന്റെ സ്വകാര്യ ആവശ്യങ്ങൾക്കായാലും സ്ഥാപനത്തിന്റെ ആവശ്യങ്ങൾക്ക് ആയാലും പരമ്പരാഗതമായ സിസ്റ്റത്തിൽ നിന്ന് ക്ലൌഡ് കമ്പ്യൂട്ടിങ്ങിലോട്ട് വരണമെങ്കിൽ ഈ വിവിധതരത്തിലുള്ള SLA യെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കണം എനിക്ക് എന്തൊക്കെയാണ് വേണ്ടത് ഏതൊക്കെ പരാമീറ്ററുകൾ ആണ് വേണ്ടത് പ്രൊവൈഡറിന്റെ ഭാഗത്തുനിന്ന് അതിനെ അളക്കാൻ പറ്റുമോ ഞാൻ ചെയ്യുന്ന പ്രവർത്തി അല്ലെങ്കിൽ ബിസിനസ്സിന്റെ ഭാഗത്തുനിന്നുള്ള പ്രവർത്തികൾ അവയുടെ കാര്യക്ഷമതയെ ഈ ക്ലൌഡ് സർവ്വീസ് തെറ്റായ രീതിയിൽ ബാധിക്കില്ല എന്ന് ഉറപ്പു വരുന്നുണ്ടോ എന്നും നമുക്ക് നോക്കേണ്ടിവരും ഇവിടെവെച്ച് ഞാൻ നിർത്തുകയാണ്